ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ II എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്Sസുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ലെക്ചർ എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ അവിടെ വിശദീകരിക്കുന്നു നമുക്ക് അത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം അതിനാൽ ഈ ഉദാഹരണത്തിൽ 80 മില്ലീമീറ്റർ മുമ്പിലുമാണ് കൂടാതെ ഈ രേഖ ലംബ തലത്തിന് സമാന്തരവും തിരശ്ചീന തലത്തിലേക്ക് 30 ഡിഗ്രിയിൽ ചെയ്യുന്നതിന് ഒരാൾക്ക് ആ അന്തർദർശനം ഉണ്ടായിരിക്കണം ഇതാണ് ലംബ തലം ഒരുപക്ഷേ ഇത് തിരശ്ചീന തലം ഒരുപക്ഷേ പുറകുവശത്തും ഇത് പോകുന്നു നമുക്ക് ഇതിന് തിരശ്ചീന തലം എന്ന് പേരിടാം ഇത് 80 മില്ലീമീറ്റർ നീളമുള്ള പി ക്യു മുമ്പിൽ എന്നാൽ അത് ഇവിടെയോ അല്ലെങ്കിൽ അവിടെയോ ആകാം എന്നാൽ അത് ലംബ തലത്തിന് മുന്നിലാണെന്ന് അതിൽ പരാമർശിക്കുന്നു അതിനാൽ പി എന്ന ബിന്ദു എവിടെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല എന്നാൽ ഇത് 80 മില്ലീമീറ്റർ നീളമുള്ള രേഖയാണ് അത് ആ ദിശയിലാകാം അത് ആ ദിശയിലുമാകാം ഏത് ദിശയിലേക്കും ആകാം ഈ രേഖ ലംബ തലത്തിന് സമാന്തരമായിരിക്കണം എന്നതാണ് അവർ നൽകിയ മറ്റൊരു വ്യവസ്ഥ അതിനാൽ ലംബ തലത്തിനു സമാന്തരമായ രേഖ ഒരുപക്ഷേ ആ ദിശയിലായിരിക്കാം ഒരുപക്ഷേ ആ ദിശയിലായിരിക്കും നമുക്ക് ലഭിക്കുക പക്ഷേ ഇത് ലംബ തലവുമായി യാതൊരു ചെരിവ് കോണും സൃഷ്ടിക്കരുത് ഇതാണ് ആദ്യത്തെ വ്യവസ്ഥ രണ്ടാമത്തേത് തിരശ്ചീന തലത്തിലേക്ക് 30 ഡിഗ്രി തുല്യമാണ് അതിനാൽ മറ്റൊരു ബിന്ദുവായ ക്യു കൂടുതൽ താൽപ്പര്യമുള്ളത് എന്തെല്ലാമാണ് അതിനാൽ പി നമ്മൾ ഒരു രേഖ നിർമ്മിക്കേണ്ട രീതി അതിനാൽ ലംബവും തിരശ്ചീനവുമായ പ്ലെയിനുകളിൽ കാണപ്പെടേണ്ടത് ഇങ്ങനെയാണ് അതിനാൽ നമുക്ക് സൊല്യൂഷൻ രേഖ വരയ്ക്കണം ഇതാണ് എക്സ് ആക്സിസ് നമ്മൾ ഈ ഭാഗത്തായി ഒരു ബിന്ദു അടയാളപ്പെടുത്തണം അതുപോലെ ചെയ്യണം അതിനാൽ ആ തിരശ്ചീന തലത്തിലേക്ക് 30 ഡിഗ്രി ചെയ്യുക അതിനാൽ ഇതായിരിക്കണം ബിന്ദു

അതിനാൽ ലംബ തല ബിന്ദുക്കൾ മുമ്പിലാണ് അതിനാൽ 10 മില്ലീമീറ്റർ രേഖ ആദ്യം നമുക്ക് എക്സ് വൈ ആക്സിസിൽ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ആ ആയിരിക്കും ഈ രേഖകൾ യോജിപ്പിക്കുക അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കുക ഇത് 10 യൂണിറ്റായിരിക്കും എന്നും വിളിക്കുന്നു നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം

40 മില്ലീമീറ്റർ 40 മില്ലീമീറ്റർ ആണെങ്കിൽ ഇവിടെയായി എനിക്ക് ബിന്ദു കണ്ടെത്താനാകും ത്രിമാനത്തിലുള്ള ഈ ബിന്ദുവിനെ നമുക്ക് കൂടാതെ അത് ലംബ തലത്തിന് സമാന്തരമാണ് അതിനർത്ഥം അത് ആ രീതിയിൽ ആയിരിക്കണം മുമ്പത്തെ പ്രശ്നത്തിന് സമാനമായി നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 30 ഡിഗ്രി നമ്മൾ നിർമ്മിക്കണം അത് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം ഈ രേഖ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇതിനെല്ലാം അനുസരിച്ച് ഫലം എങ്ങനെ മാറുന്നു നമുക്ക് അത് നോക്കാം ഇപ്പോൾ അത് തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നിർമ്മിക്കും അതിനർത്ഥം അത് ആ ലംബ തലത്തിന് സമാന്തരമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ രേഖ 30 ഡിഗ്രി സൃഷ്ടിക്കേണ്ട രീതി പക്ഷെ അത് ലംബ തലത്തെ വിഭജിക്കരുത് അത് അതിന് സമാന്തരമായിരിക്കണം അതിനാൽ രേഖ ആ ലംബ തലത്തിന് സമാന്തരമായാണ് പോകേണ്ടത് പക്ഷേ നമ്മൾ തിരശ്ചീന തലത്തിലേക്ക് നോക്കുമ്പോൾ അത് 30 ഡിഗ്രി ആ സ്ഥാനത്ത് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ പ്ലെയിനിലേക്കു എന്നിവ ആയിരിക്കും അതിനാൽ നമുക്കത് നമ്മുടെ ഷീറ്റിൽ ചെയ്യേണ്ടതുണ്ട് അതിനാൽ അവിടെ എവിടെയെങ്കിലുമായി ഈ ഈ രേഖ ബന്ധിപ്പിക്കുക അതിൽ 40 മില്ലീമീറ്റർ രേഖ ലൊക്കേറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ 15 മില്ലീമീറ്ററിൽ അവിടെയായി ഒരു ബിന്ദു അടയാളപ്പെടുത്തണം അതായത് എന്നിട്ട് മാർകിങ് ചെയ്യുന്നത് ഈ രീതിയിലാണ് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം അത് സെക്കന്റ് ക്വാഡ്രന്റിൽ ഇവിടെയായി ഇപ്പോൾ ഈ തിരിക്കുക എന്നതാണ് അത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം അതിനാൽ നമുക്ക് അതേ ഡ്രോയിംഗ് ഷീറ്റ് എല്ലായ്പ്പോഴും 10 ആയിരിക്കും അനന്തരം ഇത് തിരശ്ചീനവുമായി 30 ഡിഗ്രി തിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തിരശ്ചീന തലത്തിലേക്ക് ചെയ്യേണ്ടതുണ്ട് എന്നത് പോലെയുള്ള ഒരു തോന്നൽ നൽകുന്നു അതിനാൽ അവിടെ എവിടെയെങ്കിലും ആയി 15 മില്ലീമീറ്റർ നമ്മൾ നിർമ്മിക്കുന്നത് ഈ രീതിയിലാണ് ഫോർത് ക്വാഡ്രന്റിൽ ചുവടെ വരുന്നു അതിനാൽ വളരെ നന്ദി അടുത്ത ക്ലാസ്സിൽ ഈ രേഖാ പ്രൊജക്ഷനുകളെക്കുറിച്ച് നമ്മൾ പഠിക്കും